ഇപ്പോൾ ശേഖരിച്ച ഡാറ്റാസെറ്റ് നോക്കാം അങ്ങനെ 2011 ആഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെ ശേഖരിച്ച ഏകദേശം 13 ദശലക്ഷം ഉപയോക്താക്കളാണ് ഡാറ്റാസെറ്റ് മൊത്തം 13 ദശലക്ഷം ഉപയോക്താക്കൾ ഇത് ഉപയോഗിക്കുന്ന മൊത്തം ഉപയോക്താക്കളുടെ എണ്ണത്തിൽ ഇത് മുഴുവൻ ഫോർസ്ക്വയറിനോടും ഏതാണ്ട് അടുത്താണ് കൂടാതെ മൊത്തം ഡാറ്റാസെറ്റിൽ 10 ദശലക്ഷം നുറുങ്ങുകളും ഡാറ്റയിൽ ഞങ്ങൾക്ക് താൽപ്പര്യമുള്ളതും പ്രത്യേകിച്ചും ഞാൻ പറഞ്ഞതുപോലെ ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങളും ഉണ്ട് ഞങ്ങൾക്ക് താൽപ്പര്യമുണ്ട് കൂടുതലും നുറുങ്ങുകൾ സംഭാവനകൾ മേയർഷിപ്പുകൾ കാരണം അത് പരസ്യമായി ലഭ്യമായ വിവരങ്ങളാണ് പ്രത്യേക ഉപയോക്താവിന്റെ ലൊക്കേഷൻ ലഭിക്കുന്നതിന് ഈ വിവരങ്ങൾ നിങ്ങൾക്ക് എന്തിനുവേണ്ടി ഉപയോഗിക്കാം ഡാറ്റാസെറ്റിൽ ലഭ്യമായ മൊത്തം നുറുങ്ങുകളുടെ എണ്ണം ഏകദേശം 10 ദശലക്ഷമാണ് മൊത്തം ദാതാക്കളുടെ എണ്ണം ഏകദേശം 9 ദശലക്ഷമാണ് മേയർ പദവി ഏകദേശം 15 ദശലക്ഷമാണ് ലഭ്യമായ വ്യത്യസ്ത വേദികൾ ഏകദേശം 15 ദശലക്ഷമാണ് അതിനാൽ ഈ ഡാറ്റയുടെ സ്വഭാവം നമുക്ക് നോക്കാം ലഭ്യമായ ഡാറ്റാസെറ്റിനെക്കുറിച്ച് പൊതുവെ ഏതു തരത്തിലാണ് അതിനാൽ ഈ പേപ്പറിലെ ഓരോ മേശയും ഓരോ രൂപവും ഞങ്ങൾ നോക്കും കൂടാതെ ഇവിടെ നിങ്ങൾ ഡാറ്റാസെറ്റിലെ നമ്പർ നോക്കിയാൽ 13 ദശലക്ഷം UHC ആണ് UHC എന്നാൽ ഉപയോക്തൃ ഹോം നഗരം വിഎൽ എന്നാൽ വേദിയുടെ സ്ഥാനം ലഭ്യമായ സ്ഥലങ്ങളുടെ എണ്ണം കൂടാതെ GI എന്നത് ഭൂമിശാസ്ത്രപരമായ വിവരങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് തീർച്ചയായും ചില വിവരങ്ങൾ ഉണ്ടാകും ചില സ്ഥലങ്ങൾ സാധുവായിരിക്കില്ല ഉദാഹരണത്തിന് കടലിന്റെ നടുവിലുള്ള എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു സ്ഥലവും ലഭിക്കില്ല അത് സൃഷ്ടിക്കപ്പെടാൻ സാധ്യതയുള്ള സ്ഥലങ്ങളുണ്ട് ആരുടെയോ ഹൃദയം ശരിയാണ് ഹൃദയം അതിനാൽ ഇത്തരത്തിലുള്ള ലൊക്കേഷനുകൾ നീക്കം ചെയ്യേണ്ടതുണ്ട് ഡാറ്റാസെറ്റിലെ നമ്പറിനും സാധുവായ ജിഐയ്ക്കും ഇടയിൽ സംഭവിച്ചത് അതാണ് സാധുതയുള്ളതാണ് എന്നാൽ അവ്യക്തമാണ് അത് സാധുതയുള്ളതാണ് എന്നാൽ കൃത്യമായ സ്ഥാനം കണ്ടെത്താനും റിവേഴ്സ് ലുക്ക് അപ്പ് ചെയ്യാനും മൂന്നാം നിരയിൽ വീഴുന്ന ലൊക്കേഷൻ കണ്ടെത്താനും ഞങ്ങൾക്ക് കഴിയില്ല ഭൂമിശാസ്ത്രപരമല്ലാത്ത വിവരങ്ങളും ശൂന്യമായ എൻട്രികളും അതിനാൽ വിശകലനം ശരിയാക്കാൻ ഗവേഷകർക്ക് യഥാർത്ഥത്തിൽ ഉപയോഗിക്കാനാകുന്ന ഡാറ്റ ലഭിക്കാൻ ഡാറ്റാസെറ്റ് മുറിച്ചുമാറ്റി നിങ്ങൾ ചെയ്ത ഗൃഹപാഠത്തിനായി നിങ്ങൾ പോലും ചെയ്യുന്നത് ഇതാണ് നിങ്ങൾ കുറച്ച് ഡാറ്റ ശേഖരിച്ചു പക്ഷേ കൂടുതൽ കൃത്യവും കൂടുതൽ നിർദ്ദിഷ്ടവുമായ ഡാറ്റ ലഭിക്കുന്നതിന് ഡാറ്റ യഥാർത്ഥത്തിൽ വെട്ടിമാറ്റാനുള്ള വഴി നിങ്ങൾ ചെയ്തില്ല ഭൂമിശാസ്ത്രപരമായ വിവരങ്ങളുടെ ഗുണനിലവാരം ഭൂഖണ്ഡം രാജ്യങ്ങൾ സംസ്ഥാനം ഈ ഡാറ്റാസെറ്റിൽ ലഭ്യമായ ഈ വിവരങ്ങൾ ഉപയോക്താക്കളുടെ എണ്ണം വേദികളുടെ എണ്ണം എന്നിവയാണ് രാജ്യം സംസ്ഥാനം കൌണ്ടി നഗരം അയൽപക്കം താൽപ്പര്യമുള്ള സ്ഥലം അല്ലെങ്കിൽ വിമാനത്താവളം തെരുവ് താൽപ്പര്യമുള്ള സ്ഥലം കോർഡിനേറ്റുകൾ അതിനാൽ നിങ്ങൾ ഫോർസ്ക്വയറിൽ നിന്ന് ഡാറ്റ ശേഖരിക്കുമ്പോൾ നിങ്ങളുടെ json ൽ ഈ വിവരങ്ങളെല്ലാം ലഭിക്കും വിശകലനത്തിനായി ഉപയോഗിക്കാവുന്ന കൂടുതൽ ഗുണനിലവാരമുള്ള ഡാറ്റ ലഭിക്കാൻ ഇത് അടിസ്ഥാനപരമായി വെട്ടിക്കളഞ്ഞു അത് അർത്ഥവത്താണ് അതിനാൽ ഇവയെ പര്യവേക്ഷണ ഡാറ്റ വിശകലനം എന്ന് വിളിക്കുന്നു ശേഖരിച്ച ഡാറ്റയിൽ എന്താണ് ലഭ്യമാകുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഡാറ്റയെ വിവരിക്കുന്ന ഡാറ്റ ഞങ്ങൾ ഇവിടെ വിശദീകരിക്കുന്നു ഒന്നിലധികം ഉപകരണങ്ങൾ ഉപയോഗിച്ചു അതിനാൽ ഡെവലപ്പർ ഡോട്ട് യാഹൂ ഡോട്ട് കോം സ്ലാഷ് ജിയോ സ്ലാഷ് പ്ലേസ്ഫൈൻഡർ അവയിലൊന്ന് ഞാൻ കാണിച്ചുതരാം ഇത്തരത്തിലുള്ള ഉപകരണങ്ങൾ യഥാർത്ഥത്തിൽ ഒരു സ്ഥലം തിരയാനും മാപ്പിൽ എവിടെയാണെന്ന് കണ്ടെത്താനും നിങ്ങളെ അനുവദിക്കുന്നു നിങ്ങൾ അവർക്ക് സ്ഥാനം നൽകിയാൽ അത് നിങ്ങൾക്ക് അക്ഷാംശവും രേഖാംശവും മറുവശത്ത് നൽകാം അക്ഷാംശം രേഖാംശം നൽകുന്നു അത് നിങ്ങൾക്ക് സ്ഥാനം നൽകും ചെക്ക് ഇന്നുകളുടെ സ്ഥാനം നുറുങ്ങുകളുടെ സ്ഥാനം ശേഖരിച്ച മറ്റ് വിവരങ്ങൾ എന്നിവ കണ്ടെത്താൻ ഈ പ്രത്യേക ഗവേഷണത്തിൽ അത്തരം നിരവധി ഉപകരണങ്ങൾ ഉപയോഗിച്ചു അതിനാൽ നിങ്ങൾ വിശകലനത്തിന്റെ ബാക്കി നോക്കുകയാണെങ്കിൽ ഞങ്ങൾ സംസാരിക്കുന്ന രണ്ട് കണക്കുകൾ ഇതാ ആദ്യം നമുക്ക് ചിത്രം 1 നെക്കുറിച്ച് സംസാരിക്കാം അത് ഇടതുവശത്ത് കാണിച്ചിരിക്കുന്നു എന്നാൽ നമുക്ക് ഉള്ളടക്കം നോക്കാം ചിത്രം 1 ൽ ചിത്രം 1 ൽ കാണിച്ചിരിക്കുന്നതും ഫോർസ്ക്വയറിന്റെ മുൻ വിശകലനവുമായി പൊരുത്തപ്പെടുന്നതും മേയർമാരുടെ എണ്ണം നുറുങ്ങുകൾ സംഭാവനകൾ എന്നിവയുടെ വിതരണം അതിനാൽ നിങ്ങൾ അത്തരം ഡാറ്റ ശേഖരിക്കുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യുന്നത് ഇതാണ് അതിനാൽ സോഷ്യൽ മീഡിയ വിശകലനത്തിൽ നിങ്ങൾ പൊതുവെ കണ്ടിരുന്ന മറ്റൊരു കാര്യം ഡാറ്റ ഒരു പവർ നിയമമാണോ അതോ സോഷ്യൽ മീഡിയയിൽ നിന്ന് നിങ്ങൾ ശേഖരിച്ച ഡാറ്റ പാരേറ്റോ തത്വം പിന്തുടരുന്നുവെന്ന് കാണിക്കുക എന്നതാണ് അതായത് 20 ശതമാനം ഉപയോക്താക്കൾ യഥാർത്ഥത്തിൽ സോഷ്യൽ മീഡിയയിൽ സൃഷ്ടിക്കുന്ന ഉള്ളടക്കത്തിന്റെ 80 ശതമാനം മാത്രമേ സംഭാവന ചെയ്യുന്നുള്ളൂ സമാനമായ ഒരു ഗ്രാഫ് ഇവിടെ വരച്ചതാണ് ഇത് ഓരോ ഉപയോക്താവിനും മേയർഷിപ്പുകൾ നുറുങ്ങുകൾ സംഭാവനകൾ എന്നിവയുടെ വിതരണവും അവർ വക്രതയുള്ള അനുമാനങ്ങളും കുറച്ച് ഉപയോക്താക്കൾക്ക് നിരവധി മേയർ പദവികൾ ഉണ്ടെന്ന് സൂചിപ്പിക്കുന്നു നുറുങ്ങുകൾ അല്ലെങ്കിൽ സംഭാവനകൾ അവരിൽ ബഹുഭൂരിപക്ഷത്തിനും ഒരു മേയർ പദവി മാത്രമേയുള്ളൂ നുറുങ്ങ് അല്ലെങ്കിൽ ചെയ്തു അതിനാൽ അതാണ് അടിസ്ഥാനപരമായി ഒരു പാരേറ്റോ തത്വം അതാണ് അടിസ്ഥാനപരമായി അധികാര നിയമവും അതിനാൽ ചിത്രം 1 ന്റെ ഇടതുവശത്തുള്ള ഗ്രാഫ് നോക്കുകയാണെങ്കിൽ ഒരു വലിയ തുകയുടെ അതേ കാര്യം നിങ്ങൾ കാണും അതിനാൽ വലിയ അളവിലുള്ള ഉപയോക്താക്കൾക്ക് യഥാർത്ഥത്തിൽ ഒരു ചെറിയ ഉപയോക്താക്കളുണ്ട് അതാണ് ഇവിടെയുള്ളത് അതിനാൽ ഡാറ്റയുടെ 90 ശതമാനവും ഒരു ചെറിയ കൂട്ടം ഉപയോക്താക്കൾ സൃഷ്ടിച്ചതാണെന്ന് നമുക്ക് കണക്കാക്കാം ഇവിടെയുള്ള ഭൂരിഭാഗം ഉപയോക്താക്കളും മേയർഷിപ്പുകളിലേക്കോ നുറുങ്ങുകളിലേക്കോ സംഭാവനകളിലേക്കോ സംഭാവന നൽകുന്നില്ല അതിനാൽ നിങ്ങൾ വായിക്കുന്ന ഗ്രാഫ് അതാണ് അതുപോലെ നമുക്ക് ചിത്രം 2 ലേക്ക് പോകാം ചിത്രം 2 നഗരത്തിന്റെ മേയർഷിപ്പുകളുടെയും നുറുങ്ങുകളുടെയും സംഭാവനകളുടെയും എണ്ണം കാണിക്കുന്നു കുറഞ്ഞത് ഒരു ആട്രിബ്യൂട്ട് ഉള്ള നഗരങ്ങൾ മാത്രം പരിഗണിക്കുക അതിനാൽ ഒരു നഗരത്തിൽ നിന്നാണോ നിങ്ങൾക്ക് ധാരാളം മേയർ പദവികളും നുറുങ്ങുകളും സംഭാവനകളും ലഭിക്കുമോ എന്ന് കാണാൻ ഇത് യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നു ഇത് യഥാർത്ഥത്തിൽ ചിലരെ സഹായിക്കും ഡാറ്റ എങ്ങനെയാണെന്ന് കണ്ടെത്താൻ സഹായിക്കുക കാണിച്ചിരിക്കുന്നതുപോലെ വിതരണങ്ങളും വളരെ വക്രമാണ് ഏതാനും നഗരങ്ങളിൽ 100 മേയർഷിപ്പ് നുറുങ്ങുകളും സംഭാവനകളും ഉണ്ട് അതിനാൽ നിങ്ങൾ വീണ്ടും ചിത്രം 2 നോക്കുകയാണെങ്കിൽ വലിയ അളവിൽ മേയർ പദവികളും നുറുങ്ങുകളും സംഭാവനകളും ഉള്ള ചെറിയ നഗരങ്ങളുടെ കാര്യത്തിൽ വിതരണം വളരെ സമാനമാണ് ധാരാളം നഗരങ്ങളിൽ ഇവ ഇല്ല അതിനാൽ ഇവയെല്ലാം വലുതാണ് അതിനാൽ നിങ്ങൾ 80 അല്ലെങ്കിൽ 90 വർഷങ്ങളിൽ എവിടെയെങ്കിലും നോക്കിയാൽ അത് ഇവിടെയുള്ള ഒരു ചെറിയ കൂട്ടം നഗരങ്ങൾ മാത്രമാണ് വലിയ നഗരങ്ങളിൽ മേയർഷിപ്പ് നുറുങ്ങുകളും സംഭാവനകളും അല്ലെങ്കിൽ വളരെ കുറച്ച് ചെറിയ മേയർ സ്ഥാനങ്ങളും നുറുങ്ങുകളും ദാനങ്ങളും ഇല്ല കാരണം ആട്രിബ്യൂട്ടിന്റെ ഒരു ഉദാഹരണമെങ്കിലും ഉള്ള നഗരങ്ങളെ മാത്രമേ അവർ പരിഗണിക്കുന്നുള്ളൂ അവർക്ക് ഒരു ടിപ്പ് ഉണ്ടായിരിക്കണം മേയർ പദവി അല്ലെങ്കിൽ ചെയ്തു അതിനാൽ ഓരോ നഗരത്തിലെയും മേയർമാരുടെ എണ്ണം നുറുങ്ങുകൾ സംഭാവനകൾ എന്നിവ തമ്മിലുള്ള പരസ്പര ബന്ധം നോക്കിയപ്പോൾ 0 78 എന്ന കോഫിഫിഷ്യന്റോടെ മേയർമാരുടെ എണ്ണവും നഗരങ്ങളിലുടനീളമുള്ള ടിപ്പുകളുടെ എണ്ണവും തമ്മിലുള്ള ഉയർന്ന ബന്ധം അവർ കണ്ടെത്തി അതുപോലെ മേയർമാരുടെ എണ്ണവും ദാതാക്കളുടെ എണ്ണവും തമ്മിൽ പരസ്പരബന്ധം കൂടുതലാണ് അതായത് ഒരു നഗരത്തിൽ കൂടുതൽ മേയർ സ്ഥാനങ്ങൾ ഉണ്ടെങ്കിൽ കൂടുതൽ നുറുങ്ങുകളും സംഭാവനകളും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എനിക്ക് ഉയർന്ന മേയർ പദവിയുള്ള നഗരങ്ങൾ ഞാൻ കണ്ടെത്തുകയാണെങ്കിൽ എനിക്ക് കണ്ടെത്താനാകും അവിടെ കൂടുതൽ നുറുങ്ങുകളും സംഭാവനകളും ഉണ്ടായിരിക്കണമെന്ന് മനസ്സിലാക്കാൻ ഇത് ഞങ്ങളെ സഹായിക്കുന്നു അതിനാൽ നിങ്ങൾ നുറുങ്ങുകൾ നോക്കുകയാണെങ്കിൽ നുറുങ്ങുകൾ ഭൂമിയുടെ വിവിധ ഭാഗങ്ങളിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു ഒരു പ്രത്യേക വേദിയിൽ ആളുകൾ പോസ്റ്റുചെയ്യുന്ന ഉള്ളടക്കത്തിന്റെ നുറുങ്ങുകൾ നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ മൊത്തം 600000 നുറുങ്ങുകളുള്ള ന്യൂയോർക്ക് ജക്കാർത്ത സാവോ പോളോ എന്നിവയാണ് ടിപ്പുകളിലെ ആദ്യ 3 നഗരങ്ങൾ മറുവശത്ത് ഡോൺസ് യുഎസിലെ വേദികളിൽ ആദ്യത്തെ ന്യൂയോർക്ക് ചിക്കാഗോ സാൻ ഫ്രാൻസിസ്കോ തുടങ്ങിയ നഗരങ്ങളിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു കൂടാതെ അവർക്ക് ഏകദേശം 1 ദശലക്ഷം സംഭാവനകളുണ്ട് അതിനാൽ ചില നഗരങ്ങളും ചില ജനപ്രിയ നഗരങ്ങളും കാണിക്കുന്നു ഈ നുറുങ്ങുകളും സംഭാവനകളും ധാരാളം ഉണ്ട് നുറുങ്ങുകളിലും സംഭാവനകളിലും ന്യൂയോർക്ക് സാധാരണമാണ് നഗരങ്ങൾ ഈ നുറുങ്ങുകൾ മേയർഷിപ്പുകൾ സംഭാവനകൾ എന്നിവ സൃഷ്ടിക്കുന്നുവെന്ന് ഒരിക്കൽ കൂടി പറയുക തീർച്ചയായും ഇത് ഇതും പരിശോധിക്കാൻ ഇടയാക്കും അതിനാൽ ചിത്രം 3 ലും ചിത്രം 3 ലും നമ്മൾ കാണുന്ന മറ്റൊരു ഗ്രാഫ് ഇതാ അതിനാൽ ചിത്രം 3 ലോകത്തിന്റെ ഭൂപടങ്ങളിൽ ഈ വിതരണങ്ങൾ കാണിക്കുന്നു ഓരോ പോയിന്ററും വേദികളുള്ള ഒരു നഗരത്തെ പ്രതിനിധീകരിക്കുന്നു കുറഞ്ഞത് ഒരു മേയർഷിപ്പ് ടിപ്പ് നൽകി പൂർത്തിയാക്കി അതിനാൽ അടിസ്ഥാനപരമായി ഇപ്പോൾ വരെ എന്താണ് സംഭവിക്കുന്നതെന്ന് ഞങ്ങൾ ഓരോ നഗരത്തിലും മാത്രമേ കണ്ടുള്ളൂ ഇപ്പോൾ നിങ്ങൾ ഒരു മാപ്പിൽ നോക്കുമ്പോൾ ചിത്രം 3 യഥാർത്ഥത്തിൽ ഫലങ്ങൾ കാണിക്കുന്നു മാപ്പുകൾ കാണിക്കുന്നതുപോലെ ആർട്ടിക് സമുദ്രത്തിലെ ഒരു ദ്വീപസമൂഹമായ സ്വാൽബാർഡ് പോലുള്ള വിദൂര സ്ഥലങ്ങൾ ഉൾപ്പെടെ ലോകമെമ്പാടും ഫോർസ്ക്വയർ വേദികൾ വ്യാപിച്ചിരിക്കുന്നു ഉദാഹരണത്തിന് നമുക്ക് ചിത്രം 3 a b c എന്നിവ നോക്കാം അതിനാൽ ഇതാണ് മേയർ സ്ഥാനം ഇത് അടിസ്ഥാനപരമായി ഈ ഗ്രാഫിലെ ഓരോ ഡോട്ടും ഈ ഗ്രാഫിലെ ഓരോ നീല ഡോട്ടും ചിത്രം 3 എ ലോകമെമ്പാടും ലഭ്യമായ ലോകമെമ്പാടുമുള്ള മേയർഷിപ്പുകളുടെ വിതരണം കാണിക്കുന്നു ചെയ്ത നുറുങ്ങുകൾ ചിത്രം 3 ബി കാണിക്കുന്നു അതിനാൽ നിങ്ങൾ നേരത്തെ കണ്ടാൽ മേയർ സ്ഥാനവും നുറുങ്ങുകളും സംഭാവനകളും തമ്മിൽ ഉയർന്ന ബന്ധമുണ്ടെന്ന് ഞങ്ങൾ കണ്ടു അതിനാൽ മേയർ സ്ഥാനങ്ങൾ ഉയർന്നപ്പോൾ നുറുങ്ങുകളും സംഭാവനകളും ഉയർന്നതായിരിക്കും അതിനാൽ ലോകത്തിലെ പല സ്ഥലങ്ങളിലും നിങ്ങൾക്ക് കനത്ത സാന്ദ്രത വ്യക്തമായി കാണാൻ കഴിയും അവസാനത്തേത് സംഭാവനയാണ് ചിത്രം 3 സി നിങ്ങൾക്ക് ഒരു പച്ച ഡോട്ട് കാണിക്കുന്നു ഓരോ പച്ച ഡോട്ടും ആ പ്രത്യേക സ്ഥലത്ത് നിന്നാണ് ചെയ്യുന്നത് അതിനാൽ ഇത് അടിസ്ഥാനപരമായി നീല ഡോട്ടിന്റെ മേയർഷിപ്പുകൾ നുറുങ്ങുകൾ ചുവന്ന ഡോട്ട് പച്ച ഡോട്ട് ഡോണുകൾ എന്നിവ കാണിക്കുന്നു അതിനാൽ ആ കണക്ക് 3 അദ്വിതീയ നഗരങ്ങളുടെ ആകെ എണ്ണത്തിൽ സാന്ദ്രമാണ് അതിനാൽ ചിത്രം 3 എ ൽ കാണിച്ചിരിക്കുന്ന മേയർഷിപ്പുകളുടെ വിതരണം സാന്ദ്രമാണ് മൊത്തം അദ്വിതീയ നഗരങ്ങളുടെ എണ്ണം 79000 ആണ് അതിനാൽ 79000 നഗരങ്ങളിൽ ഉയർന്ന ചെക്ക് ഇന്നുകളുണ്ട് മൊത്തം ഡാറ്റയിൽ ചിത്രം 3 എ ൽ മേയർഷിപ്പുകൾ ഉണ്ട് നിങ്ങൾ ചിത്രം 3 ബി നോക്കുകയാണെങ്കിൽ ചിത്രം 3 ബി നുള്ള കുറച്ച് വിരളമായ ടിപ്പ് മാപ്പ് സൂചിപ്പിക്കുന്നത് നിരവധി നഗരങ്ങൾ ഉണ്ട് പ്രത്യേകിച്ച് കാനഡ ഓസ്ട്രേലിയ മധ്യേഷ്യ ആഫ്രിക്ക എന്നിവിടങ്ങളിൽ സ്ഥലങ്ങൾ നിർബന്ധിച്ചിട്ടും മേയർമാരുടെ ഉപയോക്താക്കൾ നുറുങ്ങുകൾ പോസ്റ്റ് ചെയ്യരുത് അതിനാൽ ആ സ്ഥലത്ത് മേയർ സ്ഥാനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ നുറുങ്ങുകളല്ല യുഎസ്എ പടിഞ്ഞാറൻ യൂറോപ്പ് തെക്കുകിഴക്കൻ ഏഷ്യ തുടങ്ങിയ വിനോദസഞ്ചാര അല്ലെങ്കിൽ വികസിത പ്രദേശങ്ങളിൽ കേന്ദ്രീകരിച്ചുള്ള കൂടുതൽ പ്രവർത്തനങ്ങളുള്ള ചിത്രം 3 സി ഇതിലും വിരളമായ ഒരു ഭൂപടം വെളിപ്പെടുത്തുന്നു അതിനാൽ മേയർ പദവികളും നുറുങ്ങുകളും സംഭാവനകളും തമ്മിൽ പരസ്പരബന്ധമുണ്ടെങ്കിലും നുറുങ്ങുകൾക്കും സംഭാവനകൾക്കും വിരളമായ ചില സ്ഥലങ്ങളുണ്ട് അതിനാൽ നമുക്ക് ചിത്രം 4 നോക്കാം ചിത്രം 4 ഇവിടെ അതിനാൽ ഇത് ചിത്രം 4 ആണ് തുടർച്ചയായ നുറുങ്ങുകളും ഓരോ ഉപയോക്താവിനും പോസ്റ്റുചെയ്ത സംഭാവനകളും തമ്മിലുള്ള സമയ ഇടവേളയുടെ സമഗ്രമായ വിതരണം ചിത്രം 4 കാണിക്കുന്നു എന്തുകൊണ്ട് ഇത് രസകരമാണ് ഉപയോക്താക്കളുടെ പ്രവർത്തനത്തെക്കുറിച്ചോ പ്രവർത്തനത്തിന്റെ ആവൃത്തിയെക്കുറിച്ചോ കണ്ടെത്താൻ ഇത് രസകരമാണ് ഇത് ചിത്രം 4 ആണ് ചിത്രം 4 ഈ നാല് അളവുകളുടെ സഞ്ചിത വിതരണം കാണിക്കുന്നു കുറഞ്ഞ ഇടവേളകളിലേക്കുള്ള ഏറ്റവും കുറഞ്ഞ ഇടവേള സമയ വിതരണത്തിന്റെ വിതരണം 50 ശതമാനം ഉപയോക്താക്കളും തുടർച്ചയായ നുറുങ്ങുകളും 1 മണിക്കൂർ ഇടവേളയിൽ പോസ്റ്റുചെയ്യുന്നതും ഞങ്ങൾ ശ്രദ്ധിക്കുന്നു അതിനാൽ ധാരാളം ഉള്ളടക്കം സൃഷ്ടിക്കപ്പെടുന്നുവെന്ന് ഇത് കാണിക്കുന്നു ധാരാളം നുറുങ്ങുകൾ ഉപയോക്താക്കൾ സൃഷ്ടിക്കുന്നു നുറുങ്ങുകളും സംഭാവനകളും 1 മണിക്കൂറിനുള്ളിൽ ഉപയോക്താക്കൾ സൃഷ്ടിക്കുന്നു എന്നിരുന്നാലും ഒരു ശരാശരി ശരാശരി പരമാവധി ഉപയോക്താക്കൾ തുടർച്ചയായ നുറുങ്ങുകൾക്കും സംഭാവനകൾക്കും ഇടയിൽ വളരെക്കാലം അനുഭവിക്കുന്നു അതിനാൽ അടിസ്ഥാനപരമായി ഇത് കാണിക്കുന്നത് വീണ്ടും അതേ പവർ ലോ കൺസെപ്റ്റിലേക്ക് തിരിച്ചുപോകുന്നു തുടർച്ചയായ നുറുങ്ങുകളും സംഭാവനകളും പതിവായി ചെയ്യുന്ന ചില സെറ്റ് ഉപയോക്താക്കളുണ്ട് ഈ വിതരണം യഥാർത്ഥത്തിൽ വളച്ചൊടിക്കുന്ന ഒരു കൂട്ടം ജനസംഖ്യയുണ്ട് ഇത് രണ്ട് തുടർച്ചയായ നുറുങ്ങുകൾക്കും സംഭാവനകൾക്കുമിടയിൽ എടുത്ത നീണ്ട സമയമാണ് ഉദാഹരണത്തിന് ഏകദേശം 50 ശതമാനം ഉപയോക്താക്കൾക്ക് ശരാശരി 450 മണിക്കൂറെങ്കിലും 20 ദിവസത്തിനടുത്ത് ശരാശരി സംവേദനാത്മക സമയമുണ്ട് അതേസമയം 80 ശതമാനം ഉപയോക്താക്കൾക്കും 167 മണിക്കൂർ പരമാവധി സംവേദനം ഉണ്ട് ഏകദേശം ഒരാഴ്ച അതിനാൽ തുടർച്ചയായ നുറുങ്ങുകളും ഓരോ ഉപയോക്താവിനും പോസ്റ്റുചെയ്യുന്ന സംഭാവനകളും തമ്മിലുള്ള സമയ ഇടവേളയുടെ സമഗ്ര വിതരണത്തിനുള്ള ഗ്രാഫ് ഇതാ ഞങ്ങൾ ടെക്സ്റ്റിൽ കണ്ട അതേ കാര്യമാണ് ഇപ്പോൾ അടുത്ത ചിത്രം ചിത്രം 5 നമുക്ക് നോക്കാം അതിനാൽ ഈ ഭാഗം ഞങ്ങൾ ഇതിനകം കണ്ടു ചിത്രം 5 അടിസ്ഥാനപരമായി ഒരേ ചോദ്യം നോക്കുന്നു അത് ഇപ്പോൾ രണ്ട് വേദികൾക്കിടയിലുള്ള സ്ഥാനചലനം വിശകലനം ചെയ്യുന്നു പോസ്റ്റ് ചെയ്ത രണ്ട് വ്യത്യസ്ത സമയങ്ങളിലാണ് ഞങ്ങൾ അവസാനമായി കണ്ടത് ഇപ്പോൾ ഞങ്ങൾ രണ്ട് വ്യത്യസ്ത വേദികൾ നോക്കുന്നു അവ ഒരേ ഉപയോക്താവ് തുടർച്ചയായി ചെയ്യുന്നു അതിനാൽ നമുക്ക് ചിത്രം 5 നോക്കാം ആദ്യം ചിത്രം 5 എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് ഞാൻ നിങ്ങളോട് പറയും അതിനാൽ തുടർച്ചയായ നുറുങ്ങുകൾക്കും ഓരോ ഉപയോക്താവിനും പോസ്റ്റുചെയ്യുന്ന സംഭാവനകൾക്കുമിടയിലുള്ള സ്ഥാനചലനത്തിന്റെ ക്യുമുലേറ്റീവ് വിതരണമാണ് ചിത്രം 5 അതിനാൽ x അക്ഷത്തിൽ അത് നിങ്ങൾക്ക് ദൂരം കാണിക്കുന്നു y അക്ഷത്തിൽ അത് വിതരണത്തിന്റെ എണ്ണം കാണിക്കുന്നു വിശകലനം ചെയ്ത എല്ലാ ഉപയോക്താക്കൾക്കും ഈ അളവുകളുടെ വിതരണം ചിത്രം 5 കാണിക്കുന്നു ഏകദേശം 36 ശതമാനം ഉപയോക്താക്കൾക്ക് ശരാശരി 0 കിലോമീറ്ററോളം ശരാശരി സ്ഥാനചലനം ഉണ്ട് വളരെ ചെറിയ ദൂരം സൂചിപ്പിക്കുന്നു ഏതാനും മീറ്ററുകൾക്കുള്ളിൽ 70 ശതമാനം ഉപയോക്താക്കൾക്കും ശരാശരി 150 കിലോമീറ്റർ ദൂരെയുള്ള സ്ഥാനചലനം ഉണ്ട് ഇത് അടിസ്ഥാനപരമായി ആരെങ്കിലും നഗരങ്ങൾക്കിടയിലൂടെ നീങ്ങുന്നു അതിനാൽ ഞാൻ മിക്കവാറും ഡൽഹിയിൽ നിന്നാണ് ഞാൻ ആഗ്രയിലേക്ക് പോകുന്നു പിന്നെ ഞാൻ മഥുര മുഴുവൻ പരിശോധിക്കുന്നു ഞാൻ മഥുരയിൽ പരിശോധിക്കുന്നു ഞാൻ ഒരു നുറുങ്ങ് അല്ലെങ്കിൽ ചെയ്തു അതാണ് യഥാർത്ഥത്തിൽ 150 കിലോമീറ്ററിനുള്ളിൽ പിടിച്ചെടുത്തത് ഏകദേശം പത്ത് ശതമാനം ഉപയോക്താക്കൾക്ക് പരമാവധി 6000 കിലോമീറ്റർ ദൂരപരിധി ഉണ്ട് ഇത് തുടർച്ചയായ രണ്ട് നുറുങ്ങുകൾ അല്ലെങ്കിൽ സംഭാവനകൾക്കിടയിലുള്ള അന്താരാഷ്ട്ര യാത്രയാണ് അതിനാൽ ഡാറ്റാസെറ്റിലെ ഞങ്ങളുടെ ഉപയോക്താക്കളുടെ വിതരണം തുടർച്ചയായ നുറുങ്ങുകൾ സംഭാവനകൾ എന്നിവ എന്താണെന്ന് ഇത് കാണിക്കുന്നു അവർ ഫോർസ്ക്വയറിൽ ചെയ്യുന്നു നമുക്ക് വീണ്ടും ചിത്രത്തിലേക്ക് പോകാം അതിനാൽ ഇത് അടിസ്ഥാനപരമായി 70 ശതമാനം ഉപയോക്താക്കളും 150 കിലോമീറ്ററും 10 ശതമാനം 7000 കിലോമീറ്ററും ആണെന്ന് നിങ്ങൾക്ക് കാണിച്ചുതരുന്നു അതിനാൽ നിങ്ങൾ ഇവിടെ 7000 കിലോമീറ്റർ കാണുന്നുവെങ്കിൽ ഇത് ഉപയോക്താക്കളുടെ അവസാന 10 ശതമാനമാണ് അവർ ഏകദേശം 7000 കിലോമീറ്ററും തുടർന്ന് വളരെ ഹ്രസ്വവും 70 ശതമാനവുമാണ് ശരാശരി 70 ശതമാനം പച്ച എന്നത് ശരാശരിയാണ് പച്ച ചതുരം ശരാശരിയാണ് ചുവന്ന പ്ലസ് ചിഹ്നം ഒരു മീഡിയൻ ആണ് ത്രികോണം ഏറ്റവും കുറഞ്ഞതും വൃത്തം പരമാവധി വലതുമാണ് അതിനാൽ ഇത് നിങ്ങൾക്ക് ഒരു ബോധം നൽകുന്നു അതിനാൽ ഇപ്പോൾ നമ്മൾ കണ്ടത് സമയവും തുടർച്ചയായ നുറുങ്ങുകളും അല്ലെങ്കിൽ ദൂരത്തെ സംബന്ധിച്ചിടത്തോളം തുടർച്ചയായ നുറുങ്ങുകളും സംഭാവനകളും അനുസരിച്ച് ചെയ്യുന്ന സമയവും തുടർച്ചയായ നുറുങ്ങുകളും അല്ലെങ്കിൽ സംഭാവനകളും ഞങ്ങൾ കണ്ടു ഇപ്പോൾ നമ്മൾ അടുത്ത കണക്ക് കാണും അടുത്ത ചിത്രം യഥാർത്ഥത്തിൽ വളരെ രസകരമാണ് അടുത്ത വിശകലനം യഥാർത്ഥത്തിൽ വളരെ രസകരമായ ഒരു വിശകലനമാണ് അവിടെ ചെക്ക് ഇൻ നുറുങ്ങുകൾ അല്ലെങ്കിൽ സംഭാവനകൾ എത്ര തവണ ആ പ്രത്യേക സ്ഥലത്തേക്ക് തിരികെ വരുന്നുവെന്ന് അവർ കണ്ടു അതിനാൽ ഇത് മടങ്ങിവരുന്ന സമയത്തിന്റെ വിതരണമാണ് അതിനാൽ ഞാൻ ഐഐഐടിയിൽ ടിപ്പ് ചെയ്യുകയോ പൂർത്തിയാക്കുകയോ ചെയ്താൽ ഞാൻ എത്ര തവണ ഒരു ടിപ്പ് അല്ലെങ്കിൽ ആ ലൊക്കേഷനിൽ ചെയ്തു കണക്ക് 6 കാണിക്കുന്നത് വിതരണത്തെ 360 മണിക്കൂറിനുള്ളിൽ തിരികെ നൽകുന്ന സമയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ഇത് അളന്ന എല്ലാ നിരീക്ഷണങ്ങളുടെയും 69 7 ശതമാനമാണ് വളവ് വ്യക്തമായി പ്രതിദിന പാറ്റേണുകൾ കാണിക്കുന്നു തിരിച്ചുവരുന്ന സമയങ്ങൾ പലപ്പോഴും 24 മണിക്കൂറുകളുടെ ഗുണിതങ്ങളാണ് ഇത് ചെക്ക് ഇന്നുകളെ അടിസ്ഥാനമാക്കി കണക്കുകൂട്ടുന്ന റിട്ടേൺ സമയ വിതരണത്തിന് സമാനമാണ് അതിനാൽ അതിന്റെ അർത്ഥമെന്താണെന്ന് നിങ്ങൾ ശരിക്കും നോക്കുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇത് 24 മണിക്കൂർ ഇന്ന് രാവിലെ ആരെങ്കിലും ഓഫീസിൽ പരിശോധിച്ചാൽ അവർ ഓഫീസിലും കടയിലും ഇൻസ്റ്റിറ്റ്യൂട്ടിലും മറ്റെല്ലാ ദിവസവും അവർ അതേ പരിശോധന നടത്തുന്നു അതിനാൽ ഇതാണ് ശരിയായ അർത്ഥം ചെക്ക് ഇൻ കണ്ട മറ്റൊരു ഗവേഷണത്തിന് റഫറൻസ് നൽകിയിട്ടുണ്ട് എന്നാൽ ഈ സാഹചര്യത്തിൽ ഞങ്ങൾ നുറുങ്ങുകളോ സംഭാവനകളോ നോക്കുന്നു ഇത് അറിയാൻ വളരെ രസകരമായ ഒരു നിഗമനമാണ് അല്ലെങ്കിൽ അടിസ്ഥാനപരമായി ഇത് ഉപയോക്താക്കളിൽ നിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന യഥാർത്ഥ ലോക പെരുമാറ്റത്തെ അഭിനന്ദിക്കുന്നു ഒരു ഗ്രാഫ് ഇതാ നിങ്ങൾ ഇവിടെ കാണുന്നത് ഏകദേശം 360 മണിക്കൂറാണ് അത് തിരിച്ചുവരുന്നത് നിങ്ങൾക്ക് വ്യക്തമായി കാണാം അതിനാൽ ഇത് എല്ലാ ദിവസവും 24 48 72 96 120 ആണ് അതിനാൽ ഇത് ഓരോ 24 മണിക്കൂറിലും മടങ്ങിവരും ചിലപ്പോൾ എന്തെങ്കിലും സംഭവിക്കുന്നതിന്റെ ആവൃത്തി വർദ്ധിക്കുന്നു അതിനാൽ ഈ ആഴ്ച 168 ആയിരിക്കണം അതിനാൽ നുറുങ്ങുകളുടെ 7 ആം ദിവസം മുതൽ നേരിയ വർദ്ധനവ് ഉണ്ട് അത് അർത്ഥവത്തായതാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അടിസ്ഥാനപരമായി ആളുകൾ ഐഐഐടി ഡൽഹിയിൽ ചെയ്യുന്നതുപോലുള്ള ഉദാഹരണങ്ങളുമായി ആളുകൾ അതേ സ്ഥലത്തേക്ക് തിരിച്ചുവരുന്നു അതായത് ചിത്രം 6 എന്നത് രസകരമായ ഒരു വിശകലനമാണ് അതിനാൽ ഇപ്പോൾ നമ്മൾ എന്തുചെയ്യും ഇപ്പോൾ ഞങ്ങൾ ആരംഭിച്ച ചോദ്യം ഞങ്ങൾ ആക്രമിക്കും ഈ ഡാറ്റ ഉപയോഗിച്ച് ഉപയോക്താവിന്റെ വീടിനെക്കുറിച്ച് എത്രത്തോളം redഹിക്കാനാകുമെന്ന് കണ്ടെത്തുക എന്നതാണ് അതിനാൽ ഈ സാഹചര്യത്തിൽ ഭൂരിപക്ഷ വോട്ടിംഗ് സ്കീം ഉപയോഗിച്ച് ഒരു ഉപയോക്താവിന്റെയോ ഹോം ലൊക്കേഷന്റെയോ മേയർഷിപ്പുകൾ നുറുങ്ങുകൾ സംഭാവനകൾ എന്നിവയിൽ ഏറ്റവും പ്രചാരമുള്ള സ്ഥലത്തിനായി ഞങ്ങൾ യഥാർത്ഥത്തിൽ ഡാറ്റ ഉപയോഗിക്കാൻ പോകുന്നു ഞങ്ങൾ നോക്കേണ്ട രണ്ട് ടേബിളുകളുള്ളതിനാൽ ഈ വോട്ടിംഗ് സ്കീം ഞാൻ നിങ്ങൾക്ക് വിശദീകരിക്കാൻ പോകുന്നു ഈ വ്യക്തിയുടെ വീട് സാധ്യമായ സ്ഥാനം എന്തായിരിക്കുമെന്നതിനെക്കുറിച്ചുള്ള ഈ വിവരങ്ങൾ സൃഷ്ടിക്കുന്നതിനായി രചയിതാക്കൾ എന്ത് സംവിധാനങ്ങളാണ് പിന്തുടർന്നതെന്നും ഞങ്ങൾ കാണും അവർ പിന്തുടർന്ന പദ്ധതി ഇതാ അവർ യഥാർത്ഥത്തിൽ ഡാറ്റ 3 ബക്കറ്റുകളായി ക്ലാസ് 0 ക്ലാസ് 1 ക്ലാസ് 2 എന്നിങ്ങനെ വെച്ചു മേയർ പദവി നുറുങ്ങ് അല്ലെങ്കിൽ പൂർത്തിയാക്കിയ ഒരൊറ്റ പ്രവർത്തനം ഉള്ള ഉപയോക്താക്കളാണ് ക്ലാസ് 0 ഡാറ്റാസെറ്റിൽ അവർക്ക് ഒരു പ്രവർത്തനം മാത്രമേയുള്ളൂ അതേസമയം ക്ലാസ് 1 ൽ ഒന്നിലധികം പ്രവർത്തനങ്ങളുള്ള ഉപയോക്താക്കൾ ഉൾപ്പെടുന്നു ഉദാഹരണത്തിന് എന്റെ അക്കൌണ്ടിൽ ഒന്നിലധികം നുറുങ്ങുകളും സംഭാവനകളും മേയർഷിപ്പുകളും ഉണ്ട് എന്നാൽ അതൊക്കെ വളരെ ഉയർന്ന ഐഐഐടി ഡൽഹി ഉണ്ട് ക്ലാസ് 2 ൽ ഒന്നിലധികം പ്രവർത്തനങ്ങളുള്ള ഉപയോക്താക്കൾ ഉൾപ്പെടുന്നു അതിൽ വേറിട്ടുനിൽക്കുന്ന ഒരൊറ്റ ലൊക്കേഷനും ഇല്ല അതിനാൽ വീണ്ടും മനസ്സിലാക്കാൻ നിങ്ങൾ ഇത് മനസ്സിലാക്കുകയാണെങ്കിൽ അനുമാനങ്ങൾ വളരെ ലളിതമാകുമെന്ന് ഞാൻ കരുതുന്നു ഈ നുറുങ്ങ് ചെയ്യുന്ന എല്ലാ ഉപയോക്താക്കളെയും സംഭാവനകളും മേയർഷിപ്പുകളും ഡാറ്റയിൽ എടുക്കുക എന്നതാണ് രചയിതാക്കൾ പിന്തുടരുന്ന യുക്തി ക്ലാസ് 0 അല്ലെങ്കിൽ ഒരൊറ്റ പ്രവർത്തനം മാത്രമുള്ള ആളുകൾ ഒരു നുറുങ്ങ് അല്ലെങ്കിൽ ഒരു മേയർ അല്ലെങ്കിൽ പൂർത്തിയാക്കിയ ക്ലാസ് 1 എന്നത് ഈ ഒരു ഭൂരിപക്ഷ ലൊക്കേഷൻ അവർക്കായി കാണിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് ഒന്നിലധികം പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളാണ് ക്ലാസ് 2 എന്നാൽ അവരുടെ പ്രവർത്തനത്തിൽ യഥാർത്ഥത്തിൽ ഒരു ലൊക്കേഷനും പ്രധാനമല്ല അതിനാൽ അവർ ഉപയോക്താക്കളുമായി നടത്തിയ തരംതിരിവ് അതാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് രണ്ട് പട്ടികകൾ കാണിക്കും ഒന്ന് ഈ ആളുകളുടെ എണ്ണവും ഈ ഡാറ്റാസെറ്റിൽ നിന്നുള്ള ഡാറ്റ പോയിന്റുകളുടെ എണ്ണവുമാണ് നിങ്ങൾ ക്ലാസ് 0 ക്ലാസ് 1 ക്ലാസ് 2 എന്നിവ പരിഗണിക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് എത്ര പേർ ഉണ്ട് അവിടെ നിങ്ങൾക്ക് ഹോം സിറ്റി ഹോം സ്റ്റേറ്റ് ഹോം കൺട്രി എന്നിവ inferഹിക്കാൻ കഴിയും അതിനാൽ ഞാൻ ഈ ഗ്രാഫ് എങ്ങനെ വായിക്കും നിങ്ങൾ ഈ പട്ടിക എങ്ങനെ വായിക്കും ഈ പട്ടികയാണ് മേയർഷിപ്പുകൾ നുറുങ്ങുകൾ പൂർത്തിയാക്കൽ മേയർഷിപ്പ് പ്ലസ് ടിപ്പ് മേയർഷിപ്പ് പ്ലസ് ഡൺ ടിപ്പ് പ്ലസ് ഡൺ അവയെല്ലാം കാണിക്കുന്നു അതിനാൽ നിങ്ങൾ മേയർ പദവി മാത്രം എടുക്കുകയാണെങ്കിൽ ക്ലാസ് 0 എന്താണ് ഞാൻ മേയർ പദവി പരിഗണിക്കുകയും ഈ ഉപയോക്താവിന്റെ 1 പ്രവർത്തനം മാത്രമേയുള്ളു ക്ലാസ്സ് 0 ൽ ഏകദേശം 727000 ഡാറ്റ പോയിന്റുകൾ ഉണ്ട് ഒരു ലൊക്കേഷൻ യഥാർത്ഥത്തിൽ പ്രബലമായ ഉപയോക്താക്കളായ 847000 കൂടാതെ 239000 ൽ പ്രബലമായ ഒരു സ്ഥലവുമില്ല അങ്ങനെയാണ് നിങ്ങൾ ഈ പട്ടിക വായിക്കുന്നത് ശരിയാണ് അതിനാൽ നിങ്ങൾ മേയർഷിപ്പുകൾ നോക്കിയാൽ 127000 മേയർഷിപ്പ് പ്ലസ് ടിപ്പ് 898000 വ്യക്തമായും മേയർ സ്ഥാനവും നുറുങ്ങും ഉയർന്നതായിരിക്കും എല്ലാം അവയ്ക്കെല്ലാം ഉയർന്നതായിരിക്കും എല്ലാവരേക്കാളും വലുതാണ് അത് നഗരത്തിനുള്ളതാണ് അതിനാൽ 700000 എന്നതിന് ക്ലാസ് 0 ആണ് 900000 ക്ലാസ്സ് 100000 ക്ലാസ് 2 ആണ് അതുപോലെ രാജ്യത്തിന് ഈ ഓരോ സവിശേഷതയ്ക്കും ലഭ്യമായ ഡാറ്റ പോയിന്റുകൾ അല്ലെങ്കിൽ വിവരങ്ങളുടെ ഒരു ഭാഗം നിങ്ങൾക്ക് നൽകുന്നു ഇപ്പോൾ നമുക്ക് കൃത്യത നോക്കാം അതായത് ഞാൻ ഈ വിവരങ്ങൾ ഉപയോഗിക്കുകയും മേയർ പദവി ഉപയോഗിച്ച് മാത്രം മേയർ സ്ഥാനം കണ്ടെത്തുകയും ചെയ്താൽ 51 6 ശതമാനം സമയം എനിക്ക് ഹോം സിറ്റി കണ്ടെത്താൻ കഴിയും എവിടെയാണെങ്കിലും ശതമാനം കൂടുതലാണെങ്കിലും ബോൾഡിൽ സൂക്ഷിച്ചിരിക്കുന്നു അതിനാൽ നിങ്ങൾ മേയർ പദവി നോക്കിയാൽ അത് ക്ലാസ് 1 ലെ ക്ലാസ് 0 ആണ് ഞങ്ങൾക്ക് ക്ലാസ് 2 ചെയ്യാൻ കഴിയില്ല കാരണം ഇത് യഥാർത്ഥത്തിൽ ഒരു പ്രത്യേക സ്ഥലം സാധ്യമല്ലാത്ത സ്ഥലങ്ങളാണ് ഒരൊറ്റ സ്ഥലം നിര്ണയിക്കാൻ കഴിയില്ല കാരണം ഞങ്ങളുടെ ലക്ഷ്യം യഥാർത്ഥത്തിൽ വീടിന്റെ സ്ഥാനം അനുമാനിക്കുക എന്നതാണ് അതിനാൽ എനിക്ക് ഒന്നിലധികം ലൊക്കേഷനുകൾ ഉണ്ടെങ്കിൽ ഞാൻ ആ കോളം ഉപയോഗിക്കാൻ പോകുന്നില്ല അതിനാലാണ് ക്ലാസ് 2 ഉയർന്ന കൃത്യതയിൽ നിലനിൽക്കാത്തത് അതിനാൽ ക്ലാസ് 1 വിഭാഗത്തിലെ ആളുകളെ നോക്കിയാൽ 67 ശതമാനം സമയവും ഹോം സിറ്റി ഊഹിക്കാവുന്നതാണ് ഞാൻ ധാരാളം നുറുങ്ങുകളും സംഭാവനകളും ചെയ്യുന്നു പക്ഷേ ഞാൻ ഒരു ടിപ്പ് അല്ലെങ്കിൽ ചെയ്ത ടിപ്പ് അല്ലെങ്കിൽ ചെയ്ത എന്റെ പ്രധാന സ്ഥലം യഥാർത്ഥത്തിൽ എന്റെ ഹോം ലൊക്കേഷനാണ് ഹോം സ്റ്റേറ്റ് ഉയർന്നതും എഴുപത് ശതമാനവും സ്വദേശ രാജ്യങ്ങൾ അതിലും ഉയർന്നതുമാണ് തീർച്ചയായും രാജ്യത്തിന്റെ ശതമാനം വർദ്ധിക്കും അതിനാൽ നഗരങ്ങളുടെ ശതമാനം എല്ലായ്പ്പോഴും സംസ്ഥാനത്തേക്കാൾ കുറവായിരിക്കും എല്ലായ്പ്പോഴും രാജ്യത്തേക്കാൾ കുറവായിരിക്കും കാരണം ഇവിടെ ഞാൻ ഇന്ത്യയിൽ നിന്നുള്ളയാളാണ് ഞാൻ തമിഴ്നാട്ടിൽ നിന്നുള്ളയാളാണെന്നത് കൂടുതൽ ബുദ്ധിമുട്ടാണ് ഞാൻ ചെന്നൈക്കാരനാണെന്നത് കൂടുതൽ ബുദ്ധിമുട്ടാണ് അത് ഹോം ലൊക്കേഷന്റെ അനുമാനത്തെക്കുറിച്ചാണ് രചയിതാക്കൾക്ക് മറ്റൊരു രസകരമായ ഗ്രാഫ് ഉണ്ട് അത് ചിത്രം 7 ആണ് അത് ഞാൻ നിങ്ങൾക്ക് ഗ്രാഫ് കാണിക്കും തുടർന്ന് ഞാൻ അത് വിശദീകരിക്കാൻ ശ്രമിക്കും അതിനാൽ ചിത്രം 7 അനുമാനവും പ്രഖ്യാപിത ഹോം സിറ്റിയും തമ്മിലുള്ള ദൂരത്തിന്റെ സഞ്ചിത വിതരണമാണ് കാരണം ഈ സേവനങ്ങളിലെ ഹോം ലൊക്കേഷനും ആളുകൾ യഥാർത്ഥത്തിൽ പ്രഖ്യാപിച്ചു നിങ്ങൾ എന്റെ അക്കൌണ്ടിലേക്ക് പോയാൽ അത് നിങ്ങൾ കണ്ടെത്തും നിങ്ങൾ എന്റെ ഫെയ്സ്ബുക്ക് അക്കൌണ്ടിലേക്ക് പോയാൽ ഞാൻ പറഞ്ഞേക്കാം ഞാൻ ഇപ്പോൾ ലൊക്കേഷനിൽ നിന്നുള്ളയാളാണെന്നും ന്യൂ ഡൽഹിയിൽ നിന്നുള്ളയാളാണെന്നും എന്റെ ഹോം ലൊക്കേഷൻ ചെന്നൈയിൽ നിന്നാണെന്നും അതിനാൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ ഉപയോഗിക്കാവുന്ന വിവരങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതന്ന പട്ടികയിൽ നിന്ന് ഞങ്ങൾ പ്രവചിച്ച വ്യത്യാസം ഇതാണ് ക്ലാസ് 0 അല്ലെങ്കിൽ ക്ലാസ് 1 ഉള്ള എന്റെ ഹോം ലൊക്കേഷന്റെ പ്രവചനമാണിത് എന്നിട്ട് ഞാൻ പറയുന്നതും യഥാർത്ഥത്തിൽ ഉള്ളതും തമ്മിലുള്ള വ്യത്യാസം കണ്ടെത്താൻ അത് ഉപയോഗിക്കുക അതാണ് ഇവിടെ ഗ്രാഫ് അതിനാൽ അനുമാനവും പ്രഖ്യാപിതവുമായ ഉപയോക്തൃ ഹോം സിറ്റിയുടെ ദൂരമാണ് x ആക്സിസ് y ആക്സിസ് ആണ് സാധ്യത അതിനാൽ നിങ്ങൾ ഗ്രാഫ് വായിക്കുന്നത് ഇങ്ങനെയാണ് ഈ ദൂരങ്ങളുടെ വിതരണം ചിത്രം 7 ൽ കാണിച്ചിരിക്കുന്നു 46 ശതമാനം ദൂരം 50 കിലോമീറ്ററിൽ താഴെയാണെന്ന് ഞങ്ങൾ കണ്ടെത്തി അതാണ് രചയിതാക്കൾ ചെയ്തത് അവർ യഥാർത്ഥത്തിൽ സൂം ചെയ്തു അതിനാൽ ഇത് അർത്ഥമാക്കുന്നത് ഇത് 5000 കിലോമീറ്ററാണ് എന്നാൽ നിങ്ങൾ ഈ ഗ്രാഫ് നോക്കിയാൽ ഉള്ളിലെ ഗ്രാഫ് 100 കിലോമീറ്ററിന് മാത്രമാണ് അതിനാൽ 46 ശതമാനം ദൂരം 150 കിലോമീറ്ററാണെന്ന് നിങ്ങൾക്ക് വ്യക്തമായി കാണാം അതിനാൽ ഇവിടെ 50 കിലോമീറ്റർ ഉണ്ട് 46 ശതമാനം കണ്ടാൽ ഇവിടെ എവിടെയെങ്കിലും ശരിയായിരിക്കണം അതിനാൽ 46 ശതമാനം ഉപയോക്താക്കൾക്ക് യഥാർത്ഥത്തിൽ ഹോം ലൊക്കേഷൻ കണ്ടെത്തുന്നതിലും യഥാർത്ഥ ലൊക്കേഷൻ കണ്ടെത്തുന്നതിലും 50 കിലോമീറ്റർ ദൂരമുണ്ട് അത് വളരെ ചെറുതാണ് എനിക്ക് ഈ വിവരങ്ങൾ 50 കിലോമീറ്റർ പിശക് ഉപയോഗിച്ച് ശരിക്കും ഉപയോഗിക്കാൻ കഴിഞ്ഞെങ്കിൽ അത് ഞാൻ മാത്രമാണ് പൊതുവായ പെരുമാറ്റ നുറുങ്ങുകളിൽ നിന്നും സംഭാവനകളിൽ നിന്നും അത് ലഭിക്കുന്നത് അത് വളരെ ഫലപ്രദമാണ് അതിനാൽ നിങ്ങൾ ഈ മോഡൽ എടുക്കുകയാണെങ്കിൽ 50 കിലോമീറ്റർ അകലെയുള്ള 78 ശതമാനം ഉപയോക്താക്കൾ എന്ന രചയിതാവിന്റെ അവകാശവാദം നിങ്ങൾ നോക്കുകയാണെങ്കിൽ അവർ പറയുന്നത് ഇതാണ് ഞങ്ങളുടെ മോഡൽ നിർമ്മിച്ച ശരിയായ അനുമാനങ്ങളുമായി ഈ ഫലങ്ങൾ സംയോജിപ്പിക്കുന്നത് 50 കിലോമീറ്ററിനുള്ളിൽ ഏകദേശം 78 ശതമാനം ഉപയോക്താക്കളുടെ നഗരത്തെ നമുക്ക് കൃത്യമായി അനുമാനിക്കാൻ കഴിയുമെന്ന് കണ്ടെത്തുക അതിനാൽ നിങ്ങളുടെ നഗരം ഏതായാലും 50 കിലോമീറ്റർ ദൂരത്തിനുള്ളിൽ ഏകദേശം 78 ശതമാനം വരുന്ന ആ നഗരത്തിന്റെ അനുമാനം നമുക്ക് ശരിയാക്കാൻ കഴിയും അതിനാൽ അമൂർത്തത്തിൽ പോലും നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ എങ്ങനെ പോകാം എന്നതിന്റെ ഒരു ബോധം ഇത് നൽകുന്നു നിങ്ങൾക്ക് വീടിന്റെ സ്ഥാനം കണ്ടെത്താൻ കഴിയുമെന്ന് രചയിതാക്കൾ അവകാശപ്പെട്ട ഈ 78 ശതമാനം കൃത്യത ഞാൻ കാണിച്ചുതന്നു തീർച്ചയായും പേപ്പർ ഘടനയിൽ നിങ്ങൾ നിഗമനങ്ങളും ഭാവി ജോലികളും പൂർത്തിയാക്കി ഡാറ്റാ മെത്തഡോളജിയിൽ എന്തെങ്കിലും ഡാറ്റ പരിമിതികളുണ്ടെങ്കിൽ പേപ്പറിൽ എന്തെങ്കിലും പരിമിതികളുണ്ടെങ്കിൽ ചില പരിമിതികൾ ഉണ്ടായിരിക്കാം അതിനാൽ ഒരു പേപ്പർ എന്നാൽ നിങ്ങൾ ക്ലാസ്സിൽ ഇതുവരെ കണ്ട കാര്യങ്ങൾ എങ്ങനെയാണ് നോക്കേണ്ടത് കുറച്ച് ഡാറ്റ എടുക്കുക ചില വിശകലനങ്ങൾ നടത്തുക ചില അനുമാനങ്ങൾ ഉണ്ടാക്കുക ഈ അനുമാനങ്ങൾ എങ്ങനെ പേപ്പറിൽ ഇടുന്നു എന്നതിന്റെ ഒരു അർത്ഥം നിങ്ങൾക്ക് നൽകുന്നു ഈ പ്രത്യേക പ്രഭാഷണത്തിൽ നമ്മൾ കണ്ടത് ഫോസ്ക്വയർ എടുത്ത് വീടിന്റെ സ്ഥാനം കണ്ടെത്തുന്നതിലായിരുന്നു ശ്രദ്ധ അതോടെ ഈ പേപ്പർ ഞാൻ ഇവിടെ നിർത്തും ഞാൻ ഉടൻ നിങ്ങളെ കാണും